അടുത്തതായി നമുക്ക്അടുത്തതായി നമുക്ക് മ്യൂച്ചൽ കപിൾ കോയിൽ വരെ റിഫ്ളക്റ്റഡ് ഇമ്പിടൻസ് നോക്കാം അതിനു ശേഷം ന്യൂമറിക്കൽസ് നോക്കാം അപ്പോൾ ഈ കേസിൽ രണ്ട് കോയിലുകളുണ്ട് ഡോട്ട് കോൺവെൻഷൻ നൽകിയിട്ടുണ്ട് അതിന്റെ മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് M ആണ് ഇവിടെയുള്ളത് ലോഡ് ഇമ്പിടൻസ് ZL ആണ് ഇത് ഒരു പ്രൈമറി കോയിലും ഇത് സെക്കണ്ടറി കോയിലുമാണ് ഇവിടത്തെ റെസിസ്റ്റൻസ് R1 ഉം ഇവിടത്തെ റെസിസ്റ്റൻസ് R2 ഉം ആണ് ഇവിടെ റിയാക്റ്റൻസ് j L1 ഉം ഇവിടെയുള്ളത് j L2 ഇത് വോൾട്ടേജ് സ്രോതസ്സാണ് ഈ സർക്യൂട്ട് അടഞ്ഞതാണ് കറണ്ട് i1 ഉം i2 ഉം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കൊയിലിൽ കറണ്ട് i1 ഇങ്ങനെയാണ് നീങ്ങുന്നത് അത് ഡോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ കറണ്ട് i2 യഥാർത്ഥത്തിൽ ഡോട്ടിൽ നിന്ന് വിട്ട് പോവുകയാണ് അതിനാൽ ഇവിടത്തെ ചിഹ്നം നെഗറ്റീവായിരിക്കും കാരണം കറണ്ട് ഇവിടെ പ്രവേശിക്കുകയും ഇവിടെ പുറത്തു പോവുകയുമാണ് ഇനി ഇത് ഇമ്പിടൻസ് ZL ആണ് അതിനാൽ ഇത് V R1 j L1 i1 j M i2 ആയിരിക്കും ഞാൻ പറഞ്ഞത് പോലെ ഇവിടത്തെ ചിഹ്നം നെഗറ്റീവായിരിക്കും കാരണം കറണ്ട് ഇവിടെ പ്രവേശിക്കുകയും ഇവിടെ പുറത്തു പോവുകയുമാണ് ഇത് 14 മത്തെ സമവാക്യമാണ് ഇനി ഇവിടെ ഈ ലൂപ്പിൽ വോൾട്ടേജ് സ്രോതസ്സ് ഇല്ല അതിനാൽ 0 R2 j L2 ZL i2 j M i1 ഈ ഭാഗം മ്യൂച്ചൽ കപ്ലിങ് കാരണമാണ് ഇത് 15 മത്തെ സമവാക്യമാണ് ഇനി ഞാനിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഈ 15 മത്തെ സമവാക്യത്തിൽ നിന്ന് i2 j M i1 R2 j L2 ZL എന്ന് ലഭിക്കും ഇത് 16 മത്തെ സമവാക്യമാണ് ഇനി 14 മത്തേയും 15 മത്തേയും സമവാക്യത്തിൽ നിന്ന് V i1 R1 j L1 2 M2 R2 j L2 ZL ഈ കാണുന്ന R1 j L1 മ്യൂച്ചൽ അവിടെ ഇല്ലാത്തപ്പോഴുള്ളതാണ് അതിനാൽ ഇത് കോയിൽ 1 ന്റെ ഇമ്പിടൻസ് ആണ് ഇതിനെ മൊത്തത്തിൽ ഈ V i1 നെ നമ്മൾ ഇൻപുട്ട് ഇമ്പിടൻസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതാണ് ഇൻപുട്ട് ഇമ്പിടൻസ് ഇത് കോയിൽ 1 ന്റെ മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് ഇല്ലാത്ത ഇമ്പിടൻസാണ് അതിനാൽ Z input V i1 R1 j L1 ഈ കാണുന്നതും ഇനി ഇവിടെ മ്യൂച്ചൽ കപ്ലിങ് ഇല്ലാതിരിക്കുമ്പോൾ അതായത് M 0 ഈ ഭാഗം ഇവിടെ ഉണ്ടാകില്ല ഇവിടെ ഈ കാണുന്ന കോയിൽ 1 ന്റെ ഇമ്പിടൻസ് മാത്രമേ കാണൂ പക്ഷെ മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് കാരണം ഈ പദം ഇവിടെ ചേർക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ കോയിലിന്റെ റിഫ്ളക്റ്റഡ് ഇംപഡൻസാണ് അതിനാൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 2 M 2 ഈ കാണുന്നതുമാണ് ഇത് സമവാക്യം 18 ആണ് ഇത് ലളിതമായ കാര്യമാണ് ഇത് സോൾവ് ചെയ്ത് കണ്ടെത്തുക എന്നതാണ് ഞാൻ അന്തിമ പദപ്രയോഗം എഴുതിയിട്ടുണ്ട് അടുത്തത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ഇതും വളരെ എളുപ്പമാണ് നമ്മളെടുക്കുന്ന ഫ്ളക്സ് സൈനുസോഡിയൽ ആണെന്ന് കരുതുക അതിനാൽ V N d ∅ d t അത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് N ∅max cos ലഭിക്കും ഇവിടെ 2 𝜋 f ആണ് അപ്പോൾ v 2 𝜋 f N ∅max cos എന്ന് ലഭിക്കും ഇതും ഇതും മാക്സിമം വോൾട്ടേജ് ആണ് ഇതിനെ √ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2 𝜋 f N ∅max √ 2 അപ്പോൾ ഇത് √ 2 𝜋 f N ∅max എന്നാവും 44 f N ∅max ആണ് ഇത് ആർ എം എസ് വോൾട്ടേജ് ആണ് ഇനി ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഫ്ളക്സ് ∅ ∅max sin t ഇനി എങ്ങനെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം v N d ∅ d t ആണ് ഇവിടെ N ടേണുകളുടെ എണ്ണവും ∅ ഫ്ളക്സ് ലിങ്കേജുമാണ് അപ്പോൾ ഇതാണ് വോൾട്ടേജിന്റെ ആർ എം എസ് മൂല്യം 4 44 f N ∅max അടുത്തത് സംഖ്യകൾ എടുക്കാം സംഖ്യകൾ എളുപ്പമാണ് കണക്കുകൂട്ടലുകൾ ശരിയായിരിക്കണം ഈ ഉദാഹരണം ഒന്ന് എടുത്തു നോക്കാം അതിനാൽ ഇതാണ് പ്രോബ്ലം ഇതിൽ നൽകിയിട്ടുള്ളത് ഇവിടെ ചുറ്റിയിട്ടുള്ള ഈ ഭാഗം കൊയിലാണ് ടേണുകളുടെ എണ്ണം N1 500 ആണ് അത് പോലെ ഇവിടെ N2 1000 ടേണുകളാണ് ഇനി മീൻ പാത്ത് നോക്കുകയാണെങ്കിൽ ഈ വസ്തുവിന്റെ µr നൽകിയിട്ടുള്ളത് 1600 എന്നതാണ് ഇതിൽ നമുക്ക് കാണേണ്ടത് L1 L2 M12 M21 ഓരോ കോയിലുകളും 1 ആംപിയർ കറണ്ടാണ് പ്രക്ഷോഭിച്ചിട്ടുള്ളത് ഇനി മീൻ ലെങ്ത്ത് എങ്ങനെ എടുക്കണം എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഉയരം 4 സെന്റിമീറ്റർ എന്നും ഈ പോയന്റിൽ നിന്ന് ഈ പോയന്റ് വരെ 6 സെന്റിമീറ്റർ എന്നും നൽകിയിട്ടുണ്ട് ഇവിടെ നൽകിയിട്ടുള്ള വണ്ണം 1 സെന്റിമീറ്ററാണ് ഇനി ഇത് 0 5 സെന്റിമീറ്ററും ഈ ഭാഗത്തും 0 5 സെന്റിമീറ്ററാണ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് 3 സെന്റിമീറ്ററാണ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് 6 സെന്റിമീറ്ററാണെന്നും നൽകിയിട്ടുണ്ട് അപ്പൊൾ സൈഡുകളെല്ലാം 3 സെന്റിമീറ്ററുകളാണ് ഇവിടെ ഈ സൈഡ് 2 സെന്റിമീറ്ററാണ് അപ്പോൾ മീൻ പാത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ 1 സെന്റിമീറ്ററാണ് എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇതും 2 സെന്റിമീറ്ററാണ് ഇവിടെ മീൻ പാത്ത് എടുക്കാം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ വിടവ് 1 സെന്റിമീറ്ററാണ് ഇവിടെയും 1 സെന്റിമീറ്ററാണ് അതിനാൽ നമുക്ക് 3 വ്യത്യസ്ത പാതകളുടേതാണ് എടുക്കേണ്ടത് അവയിലൊന്ന് ഇവിടെ മുതൽ ഇവിടെ വരെയും മറ്റൊന്ന് ഈ കാണുന്ന ഭാഗവും അടുത്തത് ഈ ഭാഗവുമാണ് അതിനാൽ നമുക്ക് 3 പാതകളുണ്ട് ഈ കോയിലുകളിൽ പ്രക്ഷോഭിച്ചിട്ടുള്ളത് 1 ആംപിയർ കറണ്ടാണ് ആദ്യം നമ്മൾ i1 1 ആംപിയർ എന്നത് മാത്രമേ പരിഗണിക്കുന്നുള്ളു ഇത് നോക്കേണ്ടതില്ല ഇവിടെയുള്ള ടേണുകൾ 500 എണ്ണമാണ് ഇവിടെയുള്ള ടേണുകളുടെ എണ്ണം 1000 ആണ് ഇവിടെയുള്ളതിന്റെ വണ്ണം 1 സെന്റിമീറ്ററാണ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളതിന്റെ മീൻ പാത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് 0 5 സെന്റിമീറ്ററാണ് അതിനാൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് ഡയഗ്രം നോക്കി വ്യക്തമാക്കുക ഇത് ഫിഗർ 18 ആണ് നമുക്ക് കണ്ടത്തേണ്ടതായിട്ടുള്ളത് L1 L2 M12 M21 എന്നിവയാണ് ആദ്യം നമ്മൾ ഇതിലെ ഓരോ കോയിലും 1 ആംപിയർ കറണ്ട് പ്രക്ഷോഭിച്ചിട്ടുണ്ടെന്നത് പരിഗണിക്കും നമുക്കറിയാം റിയാക്റ്റൻസ് R l Aµ ആണ് അത് l A µ0 µ1 A T Wb എന്നായിരിക്കും µr 1600 ആണെന്ന് നൽകിയിട്ടുണ്ട് അത് പോലെ നമുക്കറിയാം ∅ F m R Wb ഇനി നമുക്ക് 3 വ്യത്യസ്ത പാതകളുണ്ട് ഇനി L1 നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ മീൻ പാത്താണ് ഇത് 6 ആണ് ഈ വശം 1 ആണ് ഈ വശത്തും 1 ആണ് ഈ രണ്ട് വശങ്ങളും ഒരു പോലെയാണ് ഈ വശം 4 1 ആണ് ഇവിടെ നിന്നും ഇവിടെ വരെ നമുക്ക് കിട്ടുന്നത് 1 ആണ് ഇവിടെ 4 ആണെന്ന് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇവിടെ വരെ നമുക്ക് കിട്ടുന്നത് 6 ആണ് ഇവിടെ ഇത് 1 ആണ് അതിനാൽ 622 ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇത് L1 6 1 0 ഈ വശം യഥാർത്ഥത്തിൽ 6 ഉം ഈ വശം 1 ഉം ഈ വശം അതായത് ഈ വിടവ് 0 സമാനമായി അടുത്ത വശത്തും 6 1 0 5 2 ആണ് ഇവിടെ 1 അല്ല ഉള്ളത് 1 ആകെത്തുകയാണ് മീൻ പാത്ത് ആയിട്ടുള്ള 0 5 ആണ് ഇവിടെയുള്ളത് ഇനി ഇതിന്റെ കൂടെ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 4 2 ഈ വശം 4 ആണ് ഈ വശവും 4 ആണ് ഈ വശം 1 ആണ് ഇതും 1 ആണ് അതിനാൽ ഈ വശത്ത് യഥാർത്ഥത്തിൽ 4 2 അതിനാൽ ഇത് മൊത്തത്തിൽ 21 സെന്റിമീറ്റർ അതായത് 0 21 മീറ്റർ ആയിരിക്കും ഇവിടെ L2 നൽകിയിട്ടുള്ളത് 3 1 0 5 2 4 2 അതായത് ഇത് ഇവിടെ 3 ആണ് ഈ വശം 1 ആണ് ഞാൻ ഇത് പോയിന്റർ ഉപയോഗിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് 3 1 ഉം ഈ വശം 0 അതിനാൽ 3 1 0 5 ഈ വശത്തും 3 1 0 5 2 പിന്നെയുള്ളത് 4 ഉം ഈ വശം 1 ആണ് അത് പോലെ ഈ വശവും 1 ആണ് ഇവിടെയും അത് തന്നെയാണ് അത് പോലെ ഇവിടെയും 1 സെന്റിമീറ്റർ തന്നെയാണ് അതിനാൽ 4 1 1 അപ്പോൾ ഇത് ഏകതാനമാണ് അതിനാൽ ഈ L2 മൊത്തത്തിൽ 15 സെന്റിമീറ്റർ അഥവാ 0 15 മീറ്റർ ആയിരിക്കും ഇനി L3 നടുക്കുള്ള ഭാഗമാണ് അത് 4 2 ആണ് ഈ വശം 1 ഉം ഈ വശവും 1 ആണ് ഇതാണ് ഇതിന്റെ ഉയരം ഇനി ഈ R1 ഉം R2 ഉം R3 ഉം മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളുടെയും റിലക്റ്റൻസ് ആണ് അതിനാൽ L3 വെറും 4 2 6 സെന്റിമീറ്റർ അഥവാ 0 06 മീറ്ററാണ് ഇനി A ഇവിടെ വശങ്ങളിലെ 2 സെന്റിമീറ്റർ വീതമാണ് അതിനാൽ 22 4 cm2 അതായത് 4 10 4 m2 അതിനാൽ ഒന്നാമത്തെ പാതയുടെ റിലക്റ്റൻസ് R1 L1 Aµ0 µr µr ഇവിടെ നൽകിയിട്ടുണ്ട് A യും നമുക്കറിയാം അതിനാൽ ഇത് ഇതിൽ ചേർക്കുകയാണെങ്കിൽ R1 ന്റെ മൂല്യം 261113 5785 A T Wb എന്നാണ് സമാനമായി രണ്ടാമത്തെ പാതയുടെ റിലക്റ്റൻസ് R2 നോക്കുകയാണെങ്കിൽ ഇത് ഒന്നാമത്തെ പാതയുടേതാണ് ഇത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പാതയിലൊരു റിലക്റ്റൻസുണ്ട് ഇത് മറ്റൊരു റിലക്റ്റൻസാണ് ഇത് മറ്റൊരു റിലക്റ്റൻസാണ് ഇത് R1 ഇത് R2ഉം ഇത് R3 ഉം ആണ് ഒന്ന് മധ്യ ഭാഗത്തും രണ്ടെണ്ണം വശങ്ങളിലുമായി മൂന്ന് വ്യത്യസ്ത പാതകളിലാണ് ഇനി R2 കണക്ക് കൂട്ടുകയാണെങ്കിൽ l2 Aµ0µr ഇവയെല്ലാം ചേർത്ത് കൂട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 186509 7 A T Wb സമാനമായി R3 ക്ക് നമുക്ക് ലഭിക്കുന്നത് 149207 76 A T Wb ആണ് നമുക്കറിയാം ഒന്നാമത്തെ കൊയിലിൽ പ്രക്ഷോഭിച്ചിട്ടുള്ളത് 1 ആംപിയർ കറണ്ടാണ് അതിന്റെ ടേണുകളുടെ എണ്ണം 500 ആണ് നമ്മൾ രണ്ടാമത്തെ കോയിൽ പരിഗണിക്കുന്നില്ല അതിനാൽ F m1 500 A T ആണ് ഇനി അത് നോക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് ഒരു ഡി സി സർക്യൂട്ട് പോലെയാണ് ഉദാഹരണത്തിന് ഇതാണ് ഫ്ളക്സിന്റെ ദിശ കാരണം നിങ്ങൾ കോയിൽ പിടിക്കുമ്പോൾ തള്ളവിരലാണ് ഫ്ളക്സിന്റെ ദിശ സൂചിപ്പിക്കുന്നത് അതിനാൽ ഇതാണ് ഫ്ളക്സിന്റെ ദിശ മൊത്തം ഫ്ളക്സ് ∅ ആണ് പാത ഇതിലൂടെയാണ് പോകുന്നത് പാത ഡി സി സർക്യൂട്ട് പോലെയാണ് പോകുന്നത് ഇത് ഫ്ളക്സ് ഒഴുകുന്നതാണ് ഫ്ളക്സിന്റെ ദിശ ഇതിലൂടെയാണ് അതിനർത്ഥം ഇതിന്റെ ചിഹ്നം ഉം ഇത് ഉം ആണ് ഇതായിരിക്കും Fm നിങ്ങൾ ഫ്ളക്സിന്റെ ദിശ നോക്കുകയാണെങ്കിൽ ഫ്ളക്സിന്റെ ഏത് ഭാഗത്ത് ഭാഗത്ത് നിന്നാണ് കറണ്ട് പുറത്ത് വരുന്നതെന്നും നോക്കുകയാണെങ്കിൽ ഫ്ളക്സ് പുറത്ത് വരുന്നത് ഈ വഴിയാണ് ഇത് ഇലക്ട്രിക് സർക്യൂട്ടിലെക്കുള്ള അനലോഗി ആണ് ഇനി സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇത് കണക്ക് കൂട്ടുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇത് ∅1ആണ് ഇത് ∅2 ഉം ഇത് ∅3 യും ആണ് ഇത് ഫ്ളക്സാണ് ഇത് ഫ്ളക്സ് ഹരിക്കണം 2 ഇവ രണ്ടും പാരലൽ പാതയിലാണ് അതിനാൽ ഇത് F m1 ഇത് ഞാൻ സൂചിപ്പിച്ചത് പോലെ ചിഹ്നങ്ങളാവും ഞാൻ കറണ്ടിന്റെ ദിശയിൽ കണ്ടക്റ്റർ പിടിക്കുകയാണെങ്കിൽ തള്ളവിരലായിരിക്കും ഫ്ളക്സിന്റെ ദിശ സൂചിപ്പിക്കുന്നത് അതിനാൽ അതിനനുസരിച്ച് പൊളാരിറ്റി തിരഞ്ഞെടുക്കാനാവും ഇതാണ് പൊളാരിറ്റി ഇത് ആണ് ഇത് പോലെ തന്നെ റെസിസ്റ്റൻസും സീരീസ് പാരലൽ പോലെ കണക്ക് കൂട്ടാവുന്നതാണ് ഇനി മൊത്തത്തിൽ റിലക്റ്റൻസ് നോക്കുകയാണെങ്കിൽ R R1 ഇവ രണ്ടും പാരലൽ ആയത് കൊണ്ട് R2 R3 R2 R3 ഇത് വെച്ച് നമുക്ക് മൊത്തം സർക്യൂട്ടിന്റെ റിലക്റ്റൻസ് ലഭിക്കുന്നതാണ് ഇത് ആംപിയർ ടേൺസ് പെർ വെബർ ആണ് അതിനാൽ കറണ്ട് i1 ൽ നിങ്ങൾക്ക് ∅1 f m1 R ഇവിടെ f m 500 ആംപിയർ ടേണുകളും അതിവിടെ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതിനെ ഈ സംഖ്യ കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1 453 മില്ലി വെബർ ആണ് ഇത് ∅1 ആണ് ഇനി ഇപ്പോൾ ചെയ്തത് പോലെ തന്നെ ∅2 നോക്കുകയാണെങ്കിൽ ഇതാണ് ∅2 ∅21 മൊത്തം ഫ്ളക്സായ ∅1 R3 R3 R2 എന്നായിട്ടെഴുതാം ഇവിടെയും ഫ്ളക്സ് ഡിവിഷനാണ് 646 മില്ലി വെബർ ആയിരിക്കും ഇത് വളരെ എളുപ്പമാണ് കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കുകയാണേൽ ബുദ്ധിമുട്ടില്ല സർക്യൂട്ട് ഡയഗ്രം നോക്കുക ഫ്ളക്സിന്റെ ദിശ കണ്ടെത്തുക ആംപിയർ ടേൺ കാണുക എല്ലാ റിലക്റ്റൻസ് അളവുകളും ശരിയായി കണക്കുകൂട്ടുക തുടർന്ന് ശരിയായ ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ് ഇത്രേ ഒള്ളു അപ്പോൾ ഇതാണ് ∅21 ഇനി മുമ്പ് ഞാൻ സൂചിപ്പിച്ചത് പോലെ L I N ∅ എന്ന ബന്ധം ആവശ്യമുള്ളതാണ് ഇതേ ബന്ധം ഇവിടെയും ഉപയോഗിക്കുകയാണ് L1 N1 ∅1 i1 ഇവിടെ N1 500 ആണ് ∅1 നമുക്ക് ലഭിച്ചത് 1 453 മില്ലി വെബറും കറണ്ട് i1 1 ആംപിയറാണ് ചെറിയ ഒരു തിരുത്തുണ്ട് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള I1 അല്ല പകരം i1 ആണ് അപ്പോൾ ഇത് 0 7265 ഹെൻറി എന്ന് ലഭിക്കും ഇതാണ് L1 ഇനി M21 N2 ∅21 അത് യഥാർത്ഥത്തിൽ ∅2 ക്ക് തുല്യമാണ് കാരണം മറ്റേ കൊയിലിൽ കറണ്ട് ഇല്ല അതിനാൽ i2 0 ആണ് അതിനാൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് M21 ആണ് അപ്പോൾ ഇതിനെ i1 കൊണ്ട് ഹരിക്കണം അത് 1 ആമ്പിയറാണ് ഇവിടെ N2 എന്നത് രണ്ടാമത്തെ കൊയിലിലെ 1000 ആംപിയറാണ് ∅21 എന്നത് 0 646 മില്ലി വെബർ ഹരിക്കണം 1 ആംപിയർ അപ്പോൾ ഇത് മില്ലി ഹെൻറിയാണ് 646 മില്ലി ഹെൻറി സമാനമായി L2 വും M12 ഉം കോയിൽ 2 എക്സൈറ്റ് ചെയ്ത് കൊണ്ട് കണക്ക് കൂട്ടണം i2 1 ആംപിയർ എന്നും i1 0 എന്നും എടുക്കുക ഇത് നിങ്ങൾ ദയവായി സ്വയം ചെയ്യുക ഉത്തരം ഇവിടെ നൽകിയിട്ടില്ല രണ്ടാമത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ രണ്ട് കോയിലുകളും 1 ആംപിയർ കറണ്ട് ഉപയോഗിച്ച് പ്രക്ഷോഭിച്ചിട്ടുണ്ടെങ്കിൽ ∅3 നിർണ്ണയിക്കുക അപ്പോൾ ചോദ്യമനുസരിച്ച് രണ്ട് കോയിലുകളും പ്രക്ഷോഭിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ആണ് പക്ഷെ ഇവിടെ ഇത് ആണ് പക്ഷെ രണ്ട് കോയിലുകളും 1 ആംപിയർ കറണ്ട് ഉപയോഗിച്ച് പ്രക്ഷോഭിച്ചിട്ടുണ്ട് അതിനാൽ 500 ആംപിയർ പെർ ടേൺ ആണ് ഇത് 1000 1 അതായത് 1000 ആംപിയർ പെർ ടേൺ ആണ് ഇത് R1 ഉം R2 ഉം R3 യുമാണ് നമുക്ക് കാണേണ്ടത് ∅1 ഉം ∅2 ഉം ∅3യുമാണ് ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഉം ഇത് ഉം ആണ് ഡയഗ്രം നോക്കൂ രണ്ട് കോയിലുകളും പ്രക്ഷോഭിച്ചിട്ടുണ്ടെന്നതിനാൽ ഈ കേസിൽ ഇതാണ് കറണ്ടിന്റെ ദിശ വലത് കൈ ഉപയോഗിച്ച് നിങ്ങൾ കറണ്ട് i2 വിന്റെ ദിശയിൽ ഇത് പോലെ പിടിക്കുകയാണെങ്കിൽ തള്ളവിരൽ താഴോട്ടാണ് ഇതാണ് ഫ്ളക്സ് ലൈൻ അതിനാൽ ഇതാണ് ∅2 അത് താഴോട്ടാണ് എന്നത് കൊണ്ട് അതിനർത്ഥം ഇത് ഉം ഇത് ഉം ആണ് ഇങ്ങനെയാണ് കറണ്ട് പോസിറ്റീവ് ടെർമിനലിലേക്ക് വരുന്നത് ഇവിടെയുള്ളതും ഫ്ളക്സിന്റെ ദിശയാണ് അത് കൊണ്ട് തന്നെ ഇത് ഉം ഇത് ഉം ആണ് ഇതെല്ലാമാണ് ഇതിന്റെ ഉത്തരങ്ങൾ ∅1 ഉം ∅2 ഉം ∅3 ഉം നൽകിയിട്ടുണ്ട് ഇത് നിങ്ങൾ സ്വയം സോൾവ് ചെയ്യുക ഉത്തരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഉദാഹരണത്തിലേക്ക് കടക്കാം ഇവിടെ ഈ ഭാഗം 17 സെന്റിമീറ്ററാണ് ഈ വിടവ് 2 മില്ലിമീറ്ററാണ് ഇവിടെ ഒരു കോയിലുണ്ട് ഇതിന്റെ രണ്ടു വശത്തും 1000 ടേണുകളാണ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളം നൽകിയിട്ടുള്ളത് 10 സെന്റിമീറ്റർ എന്നതാണ് അതിനാൽ നമുക്ക് ശരാശരി നീളം കാണണം ഇവിടെ മുതൽ ഇവിടെ വരെ 20 സെന്റിമീറ്റർ ആണ് ഈ 3 സെന്റിമീറ്റർ വശം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഭാഗം 1 5 ഉം ഇതും 1 അതിനാൽ 10 1 5 8 5 ആണ് ശരാശരി നീളം ഇത് 20 ആണ് പക്ഷെ ഇത് ഇവിടെ 3 സെന്റിമീറ്റർ വശമാണ് അതിനാൽ ഈ വശം 1 5 ഉം ഈ വശവും 1 5 ആണ് അതിനാൽ ശരാശരി നീളം ഈ ഭാഗമാണ് ഇവിടെ മുതൽ ഇവിടെ വരെ 20 1 5 1 5 17 സെന്റിമീറ്റർ ഇവിടെ ഇതിന്റെ ശരാശരി നീളം നൽകിയിട്ടുണ്ട് അതിനാൽ എല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട് വിടവ് 2 ആണ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 പാതകളുണ്ട് lB യും lC യും ഇത് lA യുമാണ് ഈ പോയന്ററിലേക്ക് നോക്കൂ ഇത് lA ആണ് ഈ വിടവ് lC ആണ് ഇവിടെ ഈ കാണുന്ന പാത lB ആണ് ഇത് B എന്ന രേഖയാണ് ഇത് A ആണ് ഇവിടെയുള്ള വിടവ് C രേഖയാണ് ഇനി ഇവിടെ µr A ഈ വസ്തുവിന് 1000 ആണ് µr B ഈ വസ്തുവിന് 1200 ആണ് അതിനാൽ A 3 സെന്റിമീറ്റർ സൈഡ് ആണ് അപ്പോൾ ഇത് 9 10 4 m2 ആണ് lA 17 സെന്റിമീറ്റർ ആണ് അതായത് 0 17 മീറ്റർ lB 17 ഈ 8 5 ഈ വശത്തും 8 അതിനാൽ 17 8 5 8 5 cm 0 34 m ആണ് അപ്പോൾ റിലക്റ്റൻസ് സൂത്രവാക്യം അനുസരിച്ച് lA Aµ0µr A എന്നതിന് ഈ മൂല്ല്യം ലഭിക്കും സമാനമായി RB lB Aµ0µr എന്നതാണ് µ0 യുടെ മൂല്യം നമുക്കറിയാം 4 𝜋 10 7 ആണ് ഇതിന്റെ മൂല്യങ്ങളെല്ലാം ചേർക്കുമ്പോൾ നമുക്ക് ഈ മൂല്യം ലഭിക്കും അത്പോലെ RC 2 lC Aµ0 അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്തെന്നാൽ ഇത് 2 mm അതായത് 0 002 m ഈ മൂല്യം കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് ഈ മൂല്യം ലഭിക്കും So RC 2 എന്ന് എടുക്കാൻ കാരണം ഈ വശത്തും വിടവ് 1 ആണ് ഈ വശത്തും വിടവ് 1 ആണ് അത് കൊണ്ടാണ് ഇത് 2 കൊണ്ട് ഗുണിച്ചിരിക്കുന്നത് അതായത് 2 mm വിടവ് ആണ് ഇവിടെയും 2 mm വിടവ് ആണ് അത് കൊണ്ട് 2 lC അതിനാൽ ഈ ഒരു മൂല്യമാണ് ലഭിക്കുന്നത് അതിനാൽ മൊത്തം m m f നോക്കുകയാണെങ്കിൽ ഈ വശത്ത് 1 ആംപിയർ കറണ്ട് കൊണ്ട് എക്സൈറ്റ് ചെയ്ത 1000 ടേണുകളായിരിക്കും അപ്പോൾ ഈ കേസിൽ 2000 ആംപിയർ ടേണുകളായിരിക്കും അതിനാൽ ∅ m m f മൊത്തം റിലക്റ്റൻസ് ആണ് അത് ഇവിടെയുള്ളത്ര വെബർ ആയിരിക്കും ഇനി ഫ്ളക്സ് ഡെൻസിറ്റി B ∅ A ആണ് ഇതാണ് ∅ ഇതിന്റെ ക്രോസ്സ് സെക്ഷണൽ ഏരിയ 9 10 4 m2 ആണ് അപ്പോൾ ലഭിക്കുന്ന മൂല്യം 0 564 Wb m2 ആണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതേ പുസ്തകത്തിൽ വേറെയും പ്രോബ്ലംസുകൾ എടുത്ത് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക സമാനമായി ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ട് തരുന്നു ഒരു സർക്യൂട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിലുള്ള കോയിലുകൾക്ക് N സംഖ്യ ടേണുകളുണ്ട് N1 സംഖ്യ ടേണുകളും N2 സംഖ്യ ടേണുകളുമുണ്ട് ഇവിടെ രണ്ട് സമവാക്യങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട് അതിനാൽ ഇത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുക ഇതെല്ലാം ശരിയാണ് പക്ഷെ നിങ്ങളത് പരിശോധിക്കുക ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് കണ്ട് നിങ്ങൾ ആശയ കുഴപ്പത്തിലാവേണ്ടതില്ല ഇത് എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളതെന്ന് ശ്രദ്ധയോടെ നോക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുക ഇനി അഞ്ചാമത്തെ ഉദാഹരണം ഇത് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഇതിലെങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളതെന്ന് നമുക്ക് നോക്കണം ഈ കറണ്ടിന്റെ ദിശ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ ചെയ്തതാണ് ഇനി ഇത് 5 Ω ആണ് അത് പോലെ സെൽഫ് ഏരിയ റിയാക്റ്റൻസും 5 Ω ആണ് ഇവിടെയും 5 Ω ആണ് റിയാക്റ്റൻസ് മ്യൂച്ചൽ റിയാക്റ്റൻസ് j2 Ω ആണ് ഇതിവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ വോൾട്ടേജ് നൽകിയിട്ടുള്ളത് 10 ആംഗിൾ 0 ഡിഗ്രി വോൾട്ടും ഇവിടെ അത് 10 ആംഗിൾ 90 ഡിഗ്രി വോൾട്ടുമാണ് ഇവിടെയൊരു കപ്പാസിറ്റർ ഉണ്ട് കപ്പാസിറ്റർ റിയാക്റ്റൻസ് j 10 Ω ആണ് കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് നിങ്ങൾ കണ്ടത്തേണ്ടതുണ്ട് അതായത് Vc എത്രയാണുള്ളതെന്ന് ഇനി ഇത് കണക്ക് കൂട്ടണമെന്ന് കരുതുക ഞാനിത് ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇത് i1 ആണ് ഈ കാണുന്നത് i2 ഉം ആണ് അതിനാൽ ഇത് ഇത് പോലെ എടുക്കുകയാണെങ്കിൽ i1 i2 ഇത് പോലെയാണ് ഒഴുകുക കാരണം ഇത് ഈ രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഡോട്ടുകളാണ് മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല അതിനാൽ ഇവിടെ ഡോട്ട് കൺവെൻഷൻ ആണ് എടുക്കുന്നത് അപ്പോൾ കറണ്ട് ഇവിടെയാണ് പ്രവേശിക്കുന്നത് ഇവിടെ ഡോട്ട് എടുക്കുകയാണ് ഇവിടെ മറ്റൊരു ഡോട്ടും എടുക്കുകയാണ് ഇവിടെ കറണ്ട് വിട്ട് പോവുകയാണ് ഇവിടെ ഇത് എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഡോട്ടുകളിലും കറണ്ട് പ്രവേശിക്കുന്ന രീതിയിലാണ് അതിനാൽ കറണ്ട് i1 i2 ഡോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അത് പോലെ ഈ കറണ്ട് i2 ഡോട്ടിൽ നിന്ന് പുറത്ത് പോവുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാവുമ്പോൾ ഇനി ഇതിന്റെ ഫ്ളക്സ് ദിശ നോക്കൂ ഈ വൈൻഡിങ്ങിന്റെ ഫ്ളക്സിന്റെ ദിശയിൽ i1i2 പ്രവേശിക്കുകയാണ് ഇത് ഇങ്ങനെയാണ് പോകുന്നത് ഇതാണ് ∅1 ഇനി ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്നാൽ കറണ്ട് ഇവിടെ പുറത്തു പോവുകയാണ് ഇനി കറണ്ടിന്റെ ദിശയിൽ ഞാൻ ഈ കോയിൽ ഇടത് വശത്ത് ഇത് പോലെ പിടിക്കുകയാണെങ്കിൽ ഫ്ളക്സിൻറെ ദിശ മേലോട്ടാണ് അത് കൊണ്ടാണ് ∅2 മേലോട്ടായിരിക്കുന്നത് അതിനാൽ ∅1 ഇങ്ങോട്ടും ∅2 ഇങ്ങോട്ടുമാണ് അവ നേർ വിപരീത ദിശയിലാണ് അതിനാൽ ഇതിന്റെ സമവാക്യം എഴുതുമ്പോൾ ഒന്ന് ഡോട്ടിലേക്ക് പ്രവേശിക്കുന്നതും ഒന്ന് ഡോട്ടിൽ നിന്ന് പുറത്ത് പോവുന്നതും ആയതിനാൽ അവയുടെ ചിഹ്നം നെഗറ്റീവായിരിക്കും അപ്പോൾ ഇതിന്റെ സമവാക്യം എഴുതുകയാണെങ്കിൽ ഇത് സമയമെടുക്കും ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട് ഇത് 10 വോൾട്ട് ആണ് ഇത് 5 Ω ഇത് j 5 Ω ഈ മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് ഇത് കൊയിലിലെ ഡോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് മറ്റൊന്ന് പുറത്തു പോവുകയാണ് ഇത് 5 Ω ആണ് ഇനി ഇത് ചേർത്ത് കൊണ്ട് നിങ്ങൾക്കിത് സോൾവ് ചെയ്യാവുന്നതാണ് കാരണം ഇവിടെ രണ്ട് കോയിലുകളുണ്ട് അതിനാൽ അവർത്തനമുണ്ടാകും KVL ആദ്യത്തെ സമവാക്യത്തിൽ ചേർക്കുകയാണെങ്കിൽ ഇത് 5 j 5 i1 i2 കാരണം ഇവിടെ ഇതാണ് i2 ഇതാണ് i1 അതിനാൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഈ പോയിന്ററിലേക്ക് നോക്കൂ ഇത് i1 i2 ആണ് അതിനാൽ 5 j 5 i1 i2 മൈനസ് ഇത് റിയാക്റ്റൻസ് j 10 ആണ് ഗുണിക്കണം i1 ഈ ലൂപ്പിലെ കറണ്ട് അതിനാൽ ഇത് j 10 ആണ് അപ്പോൾ ഇവിടെ j 10 i1 ഇനി കറണ്ട് i1 i2 ഡോട്ടിലേക്ക് പ്രവേശിക്കുകയും i2 ഡോട്ടിൽ നിന്ന് പുറത്ത് പോവുകയുമാണ് അതിനാൽ ഈ ലൂപ്പിന് ഇത് j 2 i2 ആവും കാരണം ഈ കൊയിലിൽ i2 വഴി ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട വോൾട്ടേജ് j 2 i2 10 ആംഗിൾ 0 ഡിഗ്രി ആണ് അപ്പോൾ ഇതാണ് ഒരു സമവാക്യം സമാനമായി രണ്ടാമത്തേത് നോക്കുകയാണെങ്കിൽ ഇതാണ് രണ്ടാമത്തെ ലൂപ്പ് അതിനെ ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത് ഈ കേസിൽ രണ്ടു കോയിലുകളിലും കറണ്ട് i1 i2 ഇതിലൂടെയും i2 ഇതിലൂടെയുമാണ് ഒഴുകുന്നത് അപ്പോൾ ഇത് 5 j 5 i1 i2 ഉം ഇവിടത്തേത് നോക്കുകയാണെങ്കിൽ 5 j 5 i2 വും പിന്നീട് ഈ വോൾട്ടേജും വരും ഇനി നമുക്ക് മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് പരിഗണിക്കാം ഈ കൊയിലിൽ വോൾട്ടേജ് i1 i2 കാരണം വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും പക്ഷെ അത് ഡോട്ടിലേക്ക് പ്രവേശിച്ചും ഡോട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുമാണ് അത് കൊണ്ട് ചിഹ്നമായിരിക്കും അതിനാൽ ഇവിടെ മ്യൂച്ചൽ റിയാക്റ്റൻസ് j 2 ആണ് അപ്പോൾ ഇവിടെ ഉണ്ടാവുക j 2 i1 i2 ആണ് അടുത്തത് വോൾട്ടേജ് ഇൻഡ്യൂസാണ് ഇവിടെ ഈ കൊയിലിൽ ഇവിടെയുള്ള കറണ്ട് കാരണം i2 j 2 ആയിരിക്കും ഇവിടെ ഈ ആരോ മുകളിലോട്ടാണ് അപ്പോൾ ഇത് j 2 i2 ആവും 10 ആംഗിൾ 90 ഡിഗ്രി 10 ആംഗിൾ 0 ഡിഗ്രി അപ്പോൾ ഇത് സമവാക്യം 2 ഉം ഇത് സമവാക്യം 1 ഉം ആണ് നിങ്ങൾക്കിത് മനസിലായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വേറെ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുണ്ടാകില്ല ഇനി ഡോട്ട് കൺവെൻഷൻ കൂടി നോക്കാനുണ്ട് അപ്പോൾ ഈ കേസിൽ നമ്മൾ സമവാക്യം 1ഉം 2ഉം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് i1 1 015 ആംഗിൾ 113 96 ഡിഗ്രി ആംപിയർ ആണ് നോക്കൂ ഇതിന്റെ എല്ലാത്തിന്റേം സൊലൂഷൻസ് എൻ്റെ അടുത്തുണ്ട് പക്ഷെ ഇവിടെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അത് കൂടുതൽ സമയം എടുക്കും നിങ്ങൾക്കുള്ള ഒരു എക്സർസൈസ് ഇവിടെയുണ്ട് അത് ദയവായി ചെയ്യുക അത് ചെയ്യാൻ കുറച്ചു സമയം എടുക്കും ഇനി Vc നോക്കുകയാണെങ്കിൽ ഈ കറണ്ട് i1 ഇതിലൂടെയാണ് ഒഴുകുന്നത് Vc i1 j 10 ആയിരിക്കും അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇത് i1 j 10 ആണ് അതിനാൽ ഇത് i1 113 96 ഡിഗ്രിയും ഇനി j 10 എന്നത് 1 015 113 96 10 ആംഗിൾ 90 ഡിഗ്രിയാണ് അതിനാൽ 90 113 96 അപ്പോൾ അത് 10 15 ആംഗിൾ 23 96 ഡിഗ്രി ആയിരിക്കും ഇതാണ് അതിന്റെ ഉത്തരം ഇനി ഇത് നോക്കാം പരീക്ഷാ ആവശ്യത്തിനായി ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം സമയ ഉപഭോഗം കാരണം 3 ഡോട്ടുകൾക്ക് അൽപ്പം ഭാരമുണ്ടാകുമ്പോൾ ഇവിടെ ഇതിന്റെ സമവാക്യങ്ങൾ എല്ലാം ഉണ്ട് ഞാനിത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല ഇതെല്ലാം ശരിയാണ് ഇത് എന്റെ സമയം ലാഭിക്കും ഞാനിതെങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കൂ എല്ലാ മ്യൂച്ചൽ കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് ഇവ സൈക്ലിക് കറണ്ട് ആണെന്ന് നൽകിയിട്ടുണ്ട് ഈ സമവാക്യങ്ങളെല്ലാം നോക്കുക ആദ്യം സർക്യൂട്ട് വരച്ചത് നോക്കുക ഞാനിവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് അതെല്ലാം ശരിയാണ് ഇനി ആദ്യം ഇത് നിങ്ങൾ സ്വയം എഴുതി നോക്കുക എന്നിട്ട് ഈ എഴുതിയിരിക്കുന്നതും നോക്കുക അത് വഴി നമുക്ക് സമയം ലഭിക്കാനാവും അത് പോലെ ഫ്രീക്വൻസി ഡൊമൈനിൽ d d t യെ j കൊണ്ട് മാറ്റി എഴുതുക അങ്ങനെ എഴുതുമ്പോൾ സമവാക്യം ഇങ്ങനെയായിരിക്കും ഈ സമവാക്യങ്ങളെല്ലാം ഇത് പോലെ ആയിരിക്കും ആത്യന്തികമായി ഇക്വലന്റ് സർക്യൂട്ട് ഇങ്ങനെയായിരിക്കും അതിനാൽ ഇത് നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കുക ആദ്യം ഈ സമവാക്യങ്ങളെല്ലാം എഴുതുക എന്നിട്ട് സർക്യൂട്ട് വരക്കുക എന്നിട്ട് ഫ്രീക്വൻസി ഡൊമൈനിൽ d d t യെ j കൊണ്ട് മാറ്റി എഴുതുക എന്നിട്ട് ഈ ഇക്വലന്റ് സർക്യൂട്ട് നോക്കുക ഇത് നിങ്ങൾക്കുള്ള എക്സസൈസ് ആണ് ഇനി ഇത് മറ്റൊരു പ്രോബ്ലം ആണ് ഇത് വളരെ താൽപര്യമുണർത്തുന്ന ഒന്നാണ് രണ്ട് കപ്പിൾഡ് കോയിലുകളുടെ ബന്ധപ്പെട്ട സെൽഫ് ഇൻഡക്റ്റൻസുകൾ L1 0 05 ഹെൻറിയും L2 0 2 ഹെൻറിയുമാണ് അതിന്റെ കപ്ലിങ് കോയിഫിഷ്യന്റ് K 0 5 ആണ് കോയിൽ 2 ന് 1000 ടേണുകളുണ്ട് കോയിൽ 1 ലെ കറണ്ട് i1 5 sin ആംപിയറാണ് അതായത് 400 ആണ് അതിനാൽ കോയിൽ 2 ലെ വോൾട്ടേജും കോയിൽ 1 ൻറെ പരമാവധി ഫ്ളക്സും നിർണ്ണയിക്കുക ഇതിന്റെ സൊല്യൂഷൻ നോക്കാം നമുക്കറിയാം K M √ L1 L2 അതിനാൽ M K √ L1 L2 K ഇവിടെ 0 5 ആണെന്ന് നൽകിയിട്ടുണ്ട് അത് പോലെ L1 L2 നൽകിയിട്ടുണ്ട് 2 അതിനാൽ M എന്ന മ്യൂച്ചൽ ഇൻഡക്റ്റൻസ് 0 05 ഹെൻറിയാവും ഇനി രണ്ടാമത്തെ കൊയിലിന്റെ വോൾട്ടേജ് നൽകിയിട്ടുണ്ട് നമുക്കറിയാം കോയിൽ രണ്ടിൽ M d i1 d t ഇവിടെ M 0 5 ആണ് i1 നൽകിയിട്ടുള്ളത് 5 sin 400 t ആണ് ഇനി ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ v2 100 cos 400 t ആവും മാത്രമല്ല നമുക്കറിയാം v2 N2 d ∅12 d t ആണ് പക്ഷെ നമുക്കറിയാം v2 1000 cos 400 over t യുമാണ് ഇവിടെ ഇനി നമുക്ക് v2 ഇവിടെ ചേർക്കാം N2 നമുക്കറിയാം അത് സംയോജിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ 100 cos 400 t N2 1000 ടേണുകളാണ് അത് നൽകിയിട്ടുണ്ട് d ∅12 d t അല്ലെങ്കിൽ ∅12 1000 കൊണ്ട് ഹരിച്ചത് അതായത് 10 3 100 cos d t ഇത് സംയോജിപ്പിക്കുകയാണെങ്കിൽ ∅12 എന്നത് 0 25 10 3 sin 400 t Wb എന്നാവും അതിനാൽ ∅max 0 25 10 3 Wb ആണ് അപ്പോൾ ഇതാണ് ∅max അതായത് 0 അതിനാൽ K ∅12 ∅1 ∅1 എന്നത് മൊത്തം ഫ്ളക്സാണ് അത് പോലെ ∅12 എന്നത് മറ്റേ കൊയിലിനെ ബന്ധിപ്പിക്കുന്ന ഫ്ളക്സാണ് അതിനാൽ യഥാർത്ഥത്തിൽ K ∅12 ∅1 അല്ലെങ്കിൽ ∅21 ∅2 അതായത് ∅2 മൊത്തം ഫ്ളക്സും ∅21 ഫ്ളക്സ് ലിങ്കേജും ആണ് അപ്പോൾ ഒന്നുകിൽ നമുക്ക് K ∅12 ∅1 എന്നോ അല്ലെങ്കിൽ ∅21 ∅2 എന്നോ ലഭിക്കും ഇതും കപ്ലിങ് കോയഫിഷ്യന്റ് ആണ് ഇത് നമ്മൾ മുമ്പ് ഡയഗ്രത്തിൽ കണ്ടതാണ് ∅1 ∅11 ∅12 അതിനർത്ഥം K ∅12 ∅1 അല്ലെങ്കിൽ നേരെ തിരിച്ചും അല്ലെങ്കിൽ ഇതേ തത്വം ഉപയോഗിച്ച് ∅1max ∅12max K എന്നാണ് ഈ ഒരു സമവാക്യത്തിൽ നിന്നും നമുക്ക് ∅1 ∅12 K അല്ലെങ്കിൽ ∅1 max ∅12 max K എന്നത് ലഭിക്കും ഇത് വെച്ച് നമുക്ക് 0 25 0 5 എന്നത് ലഭിക്കും അതിനാൽ K 0 5 മില്ലിവെബർ ആണ് അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള രസകരമായ പ്രോബ്ലം ആണ് ഇനി അടുത്തത് ഈ ഡയഗ്രത്തിൽ കാണുന്ന ഡോട്ടുകളുടെ വോൾട്ടേജ് 5 Ω റെസിസ്റ്ററിൽ നിർണ്ണയിക്കുക എന്നിട്ട് പൊളാരിറ്റി ഒരു കൊയിലിൽ വിപരീതമാക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ ഇതാണ് പ്രോബ്ലം കപ്ലിങ് കോയിഫിഷ്യന്റ് K 0 88 ആണ് j എന്നതും നൽകിയിട്ടുണ്ട് മറ്റുള്ള വിവരങ്ങളും നൽകിയിട്ടുണ്ട് അപ്പോൾ 5 Ω റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് കാണാനാണ് ചോദ്യം അപ്പോൾ ഇവിടെ X L 1 5 Ω എന്നും XL 2 5 Ω എന്നും K M √ L1 L2 എന്നതെല്ലാം നൽകിയിട്ടുണ്ട് അത് പോലെ M എന്നത് ഇതാണെന്നും ഇവിടെ നൽകിയിട്ടുണ്ട് ഇത് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഡോട്ട് കൺവെൻഷൻ നൽകിയിട്ടുണ്ട് കറണ്ട് ഡോട്ടിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട് പുറത്ത് പോകുന്നുമുണ്ട് അതിനാൽ നമ്മൾ ith സെക്കൻഡിലേത് നോക്കുകയാണെങ്കിൽ ഈ ലൂപ്പ് ഇവിടെ വലുതാണ് ഇവയെല്ലാം സമയത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മ്യൂച്ചൽ വോൾട്ടേജിൽ ആവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് ഇത് നിങ്ങൾ ദയവായി സോൾവ് ചെയ്യുക ഞാനിതിന്റെ ഉത്തരം പറയുന്നില്ല നിങ്ങളിത് ചെയ്ത് നോക്കി ശരിയായ ഉത്തരം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ശരിയായ ഉത്തരം നിങ്ങൾക്ക് നൽകും പക്ഷെ നിങ്ങളുടെ ഉത്തരം എല്ലാം ഫോറത്തിൽ ചേർക്കണം അതിനാൽ ഇപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് അവസാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഡിസി സർക്യൂട്ടും സിംഗിൾ ഫേസ് ഏ സി സർക്യൂട്ടും 3 ഫേസ് സർക്യൂട്ടും റെസൊണൻസും മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറവും മാഗ്നറ്റിക് സർക്യൂട്ടും എന്നിവയെല്ലാം പഠിക്കുമ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം എന്തെന്നാൽ നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ എടുക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എടുത്ത് അതിലെ കുറച്ച് ഉദാഹരണങ്ങൾ സോൾവ് ചെയ്ത് കൂടുതൽ പരിശീലിച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോറത്തിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ് ഞങ്ങൾ അവിടെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് ഫോറത്തിൽ ചേർക്കുക ഞങ്ങൾ നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതാണ് അപ്പോൾ ഇതോട് കൂടി മാഗ്നറ്റിക് സർക്യൂട്ട് അവസാനിക്കുകയാണ് അടുത്തത് നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ എടുക്കുന്നതാണ് മാഗ്നറ്റിക് സർക്യൂട്ട് അവസാനിച്ച സ്ഥിതിക്ക് നിങ്ങൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എല്ലാവർക്കും വളരെയധികം നന്ദി